രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളുടെ Y പാരാമീറ്ററുകൾ അല്ലെങ്കിൽ ചാലക പാരാമീറ്ററുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ Z പാരാമീറ്ററുകൾ നോക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവ ഒരേ കാര്യത്തിന്റെ വ്യത്യസ്ത വിവരണങ്ങളാണ് ഇത് ഒരു റെസിസ്റ്ററിന്റെ ചാലകത അല്ലെങ്കിൽ പ്രതിരോധം വ്യക്തമാക്കുന്നത് പോലെയാണ് z പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് ഒരു 2 പോർട്ട് ഉണ്ടെന്ന് പറയാം സ്വാഭാവികമായും ഇതിൽ എല്ലാ ലീനിയർ ഘടകങ്ങളും അടങ്ങിയിരിക്കാം എന്നാൽ സ്വതന്ത്ര സ്രോതസ്സുകളല്ല അതിനാൽ നമ്മൾ കറന്റുകളെ സ്വതന്ത്ര വേരിയബിളുകളായി കരുതുന്നു നിങ്ങൾ I1 I2 എന്നിവ പ്രയോഗിക്കുകയും നിങ്ങൾ V1 V2 എന്നിവ അളക്കുകയും ചെയ്യുന്നു തീർച്ചയായും V1 V2 എന്നിവ സർക്യൂട്ടിലുള്ള രണ്ട് സ്വതന്ത്ര സ്രോതസ്സുകളുടെ ലീനിയർ സംയോജനമായിരിക്കും V1 എന്നത് Z11 I1 Z12 I2 ആയിരിക്കും V2 എന്നത് Z21 I1 Z22 I2 ആയിരിക്കും സാധാരണ പോലെ വോൾട്ടേജുകളുടെയും കറന്റുകളുടെയും ദിശകൾ ശ്രദ്ധിക്കുക അവ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ പിന്തുടരുന്നു സാധാരണയായി ഇത് ഒരു മാട്രിക്സ് രൂപത്തിലും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ലീനിയർ സമവാക്യങ്ങൾ ഒരു മാട്രിക്സ് രൂപത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത്രയേയുള്ളൂ ഈ മാട്രിക്സ് ഈ 2 x 2 മാട്രിക്സ് 2 പോർട്ടിന്റെ Z മാട്രിക്സ് അല്ലെങ്കിൽ Z പാരാമീറ്റർ മാട്രിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ നിർവചനം Y പാരാമീറ്ററുകൾക്ക് സമാനമാണ് ഇവിടെ കറന്റുകൾ സ്വതന്ത്ര വേരിയബിളുകളും വോൾട്ടേജുകൾ ആശ്രിത വേരിയബിളുകളുമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് y പാരാമീറ്ററുകളുമായി താരതമ്യം ചെയ്താൽ നമ്മൾക്ക് എന്താണുള്ളത് y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് I1 I2 y11 y12 y21 y22 × V1 V2 എന്നിവ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതും അതും വ്യക്തമായി നോക്കുമ്പോൾ y മാട്രിക്സ് Z മാട്രിക്സിന്റെ വിപരീതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ y എന്നത് Z ന്റെ വിപരീതമാണ് അല്ലെങ്കിൽ Z എന്നത് y യുടെ വിപരീതമാണ് ഇപ്പോൾ ഇവയിൽ ഒന്നോ മറ്റൊന്നോ വിപരീതമല്ലായിരിക്കാം ഒരുപക്ഷേ Z മാട്രിക്സ് വിപരീതമല്ല അല്ലെങ്കിൽ y മാട്രിക്സ് വിപരീതമല്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊന്ന് നിർവചിക്കാൻ കഴിയില്ല അതിനാൽ അത് എല്ലായ്പ്പോഴും സാധ്യമാണ് ഇത് ഉണ്ടായിരിക്കുന്നതിന് തുല്യമാണ് ഒരു 0 പ്രതിരോധം വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് പറയട്ടെ പക്ഷേ നിങ്ങൾക്ക് അത് ചാലകതയാണെന്ന് വ്യക്തമാക്കാൻ കഴിയില്ല അത് അനന്തമാണ് അതിനാൽ അത് സമാനമാണ് ഇതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് നൽകുകയും Z പാരാമീറ്ററുകൾ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യട്ടെ നിങ്ങൾക്ക് നാല് അളവുകൾ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് നാല് പാരാമീറ്ററുകൾ ഉണ്ട് I1 I2 എന്നിവയുടെ സാധ്യമായ നാല് കോമ്പിനേഷനുകൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നാല് സമവാക്യങ്ങൾ ലഭിക്കും ഓരോ കേസിനും I1 I2 അളക്കുക V1 V2 എന്നിവയുടെ നാല് സാധ്യമായ കോമ്പിനേഷനുകൾ എടുക്കുക നിങ്ങൾക്ക് നാല് കോമ്പിനേഷനുകൾ ലഭിക്കും സമവാക്യങ്ങൾ അതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് നാല് പാരാമീറ്ററുകൾ പരിഹരിക്കാൻ കഴിയും ഇപ്പോൾ എടുക്കാൻ സൌകര്യപ്രദമായ കോമ്പിനേഷനുകൾ കിട്ടുന്നത് ആദ്യം നിങ്ങൾ I2 0 ആയി സജ്ജമാക്കി അതാണ് ഓപ്പൺ സർക്യൂട്ട് പോർട്ട് നമ്പർ 2 അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് V1 എന്നത് Z11 I1 ഉം V2 എന്നത് Z21 I1 ഉം ആയി ലഭിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ പോർട്ട് തുറന്ന് വിടുകയും നിങ്ങൾ ആദ്യത്തെ പോർട്ടിലേക്ക് നിലവിലെ I1 പ്രയോഗിക്കുകയും നിങ്ങൾ V1 ഉം V2 ഉം അളക്കുകയും ചെയ്യുന്നു അതിനാൽ അതിൽ നിന്ന് V1 I1 ഉപയോഗിച്ച് Z11 നമുക്ക് എളുപ്പത്തിൽ കാണാം I2 0 ആയി സജ്ജീകരിച്ചിരിക്കുന്നു സമാനമായി Z21 എന്നത് V2 I1 ഉപയോഗിച്ച് കാണാം ഇപ്പോൾ നിങ്ങൾ ഈ അളവുകൾ രണ്ടാമത്തെ പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ഉപയോഗിച്ച് നടത്തുന്നതിനാൽ Z പാരാമീറ്ററുകളും ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്ററുകളായി അറിയപ്പെടുന്നു അതിനാൽ നിങ്ങൾ 0 ന് തുല്യമായി I2 സജ്ജീകരിച്ചു അതിനാൽ ഒരു സ്വതന്ത്ര സ്രോതസ്സ് മാത്രമേ പ്രവർത്തിക്കൂ അത്രമാത്രം നിങ്ങൾ I1 I2 എന്നിവയുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സൌകര്യപ്രദമാണ് അതിനാൽ നിങ്ങൾക്ക് Z11 ഉം Z21 ഉം ഉണ്ട് Z11 എന്നത് മറ്റൊന്നുമല്ല പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ള പോർട്ട് 1 ലേക്ക് ഉള്ള റെസിസ്റ്റൻസ് Z21 എന്നത് പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയുള്ള ട്രാൻസ് റെസിസ്റ്റൻസ് ആണ് ട്രാൻസ് റെസിസ്റ്റൻസ് എന്നാൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള അനുപാതമാണ് അതിനാൽ ഇതിന് റെസിസ്റ്റൻസ്ന്റെ ഡയമെൻഷൻ ഉണ്ട് എന്നാൽ വോൾട്ടേജും കറന്റും ഒരേ സ്ഥലത്ത് അളക്കുന്നില്ല പോർട്ട് 1 ലേക്ക് കറന്റ് പ്രയോഗിക്കുന്നു പോർട്ട് 2 ൽ വോൾട്ടേജ് അളക്കുന്നു അതിനാൽ തത്വങ്ങൾ y പാരാമീറ്ററുകൾക്ക് തുല്യമാണ് ഈ ശേഷിക്കുന്ന പരാമീറ്ററുകളിലൂടെ ഞാൻ വേഗത്തിൽ പോകും y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും രണ്ട് പാരാമീറ്ററുകൾ അളക്കുകയും ചെയ്യുന്നു തുടർന്ന് ആദ്യത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും മറ്റ് രണ്ട് പാരാമീറ്ററുകൾ അളക്കുകയും ചെയ്യുന്നു ഇവിടെ ഷോർട്ട് സർക്യൂട്ടിംഗിന് പകരം നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു കാരണം ഇവിടെ സ്വതന്ത്ര വേരിയബിളുകൾ കറന്റുകളാണ് നമ്മൾ കറന്റ് 0 ആയി സജ്ജീകരിക്കുന്നു അതായത് ഒരു പോർട്ട് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി മാറുന്നു പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ മറ്റ് രണ്ടെണ്ണം അളക്കുന്നത് അതായത് Z12 Z22 എന്നിവ അളക്കുന്നതിന് വളരെ ലളിതമാണ് ഓപ്പൺ സർക്യൂട്ട് പോർട്ട് നമ്പർ 1 അതായത് നിങ്ങൾ പോർട്ട് 1 ലേക്ക് ഒന്നും ബന്ധിപ്പിക്കുന്നില്ല നിങ്ങൾ I2 നെ പോർട്ട് 2 ലേക്ക് ബന്ധിപ്പിക്കുകയും V2 V1 എന്നിവ അളക്കുകയും ചെയ്യുക അതിനാൽ ആദ്യത്തെ സമവാക്യം V1 Z12 I2 ലേക്ക് കുറയുന്നു കാരണം Z11 I1 എന്നത് 0 ആണ് കാരണം I1 0 ആണ് V2 എന്നത് Z22 I2 ആയിരിക്കും അതിനാൽ ഇവയിൽ നിന്ന് നമുക്ക് Z12 ലഭിക്കും I1 0 ആകുമ്പോൾ അതായത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ടഡ് ആയിരിക്കും Z22 എന്നത് V2 I2 ആയിരിക്കും അതായത് Z22 ആണ് പോർട്ടിലേക്ക് ഉള്ള പ്രതിരോധം പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട്ആകുമ്പോൾ Z12 എന്നത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉള്ള പോർട്ട് 2 മുതൽ പോർട്ട് 1 വരെയുള്ള ട്രാൻസ് റെസിസ്റ്റൻസ് ആണ് അതിനാൽ ഇവ y പാരാമീറ്ററുകൾക്ക് സമാനമായ ലളിതമായ നിർവചനങ്ങളാണ് ഇത് വളരെ വ്യക്തമായിരിക്കണം